മെട്രോളജിയും അളവുകളും എന്ന കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ അളക്കൽ സംവിധാനങ്ങൾ എവിടെയെല്ലാം പ്രയോഗിക്കാൻ പറ്റുമെന്ന് കാണും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തവ ഉൾപ്പെടെ എല്ലാ അളവെടുപ്പുകളും ഈ മൂന്ന് വിഭാഗങ്ങളിലൊന്നിൽ ഉൾപ്പെടുത്താം 1 പ്രക്രിയയുടെയും പ്രവർത്തനത്തിന്റെയും നിരീക്ഷണം 2 പ്രക്രിയയുടെയും പ്രവർത്തനത്തിന്റെയും നിയന്ത്രണം 3 പരീക്ഷണാത്മക എഞ്ചിനീയറിംഗ് വിശകലനം ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് മെഷർമെൻറ് സിസ്റ്റം ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നത് ഓരോ പ്രക്രിയയെയും പ്രവർത്തനത്തേയും നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചില അളവുകൾ ട്രാക്കുചെയ്യുന്നതിന് അളക്കുന്ന ഉപകരണം ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് താപനില മഴ ഈർപ്പം എന്നിവ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഇവിടെ ചില അളവുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അളക്കുന്ന ഉപകരണം ഉപയോഗിച്ച് ട്രാക്കുചെയ്യുന്നു അളക്കുന്ന ഉപകരണത്തിന്റെ ചില ആപ്ലിക്കേഷനുകൾ അടിസ്ഥാനപരമായി ഒരു മോണിറ്ററിംഗ് ഫംഗ്ഷൻ ആണ് താപനില ബാരോമീറ്റർ മർദ്ദം വെള്ളം ഗ്യാസ് ഇലക്ട്രിക് മീറ്റർ ഓട്ടോമോട്ടീവ് സ്പീഡോമീറ്റർ ഇന്ധന ഗേജ് കോമ്പസ് എന്നിവ ആകാം അതിനാൽ പ്രക്രിയയും പ്രവർത്തനവും നിരീക്ഷിക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ ഇത് നിരീക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് ഇന്ധനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ലെവൽ ഒരു നിശ്ചിത അളവിനേക്കാൾ കുറവാണെങ്കിൽ ഇത് വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് ഒരു റെഡ് അലേർട്ട് നൽകുന്നു തുടർന്ന് അത് ശൂന്യമായി മാറുന്നുവെന്ന് പറയുന്നു ഇവിടെ ഇത് കറുപ്പും സുരക്ഷിതവുമാണെന്ന് പറയുന്നു എന്താണ് E F ഇവിടെ നിങ്ങൾക്ക് ഈ സെന്റർ ഇമേജ് ഇല്ലെങ്കിൽ ഈ E F എന്നിവയ്ക്ക് അർത്ഥമില്ല ഈ സെന്റർ ഇമേജ് പെട്രോൾ പമ്പ് പോലെ കാണപ്പെടുന്നത് കൊണ്ട് ആളുകൾക്ക് ഇത് മനസിലാകുന്നു അതുകൊണ്ടു ഈ ഉപകരണം വാഹനത്തിൽ ഇന്ധനത്തിന്റെ അളവ് സൂചിപ്പിക്കുന്നു ഒരു നിശ്ചിത കാലയളവിൽ ഇത് എത്രമാത്രം മുങ്ങിപ്പോകുന്നുവെന്ന് ഇത് നിരീക്ഷിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേകളുണ്ട് ഇന്ധന ഉപഭോഗം അളന്ന ദൂരം എന്നിവയിൽ നിന്ന് ഓരോ ലിറ്ററിനും കിട്ടിയ മൈലേജ് കാണിക്കുന്നു ഓരോ അടയാളപ്പെടുത്തലും അത് സഞ്ചരിച്ച മൈലേജ് എന്താണെന്ന് പറയുന്നു ഇത് 1 ലിറ്ററായി പരിവർത്തനം ചെയ്ത് ഈ വാഹനം സഞ്ചരിച്ച ദൂരം എത്ര എന്ന് പറയുന്നു അതിനാൽ ഇതിൽ നിന്ന് പ്രക്രിയയെക്കുറിച്ചോ വാഹനത്തെക്കുറിച്ചോ മനസ്സിലാക്കാം പ്രക്രിയകളുടെയും പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം എന്ന മറ്റൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് മെഷർമെൻറ് അപ്ലിക്കേഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസാണ് പ്രക്രിയ നിയന്ത്രിക്കുന്നതിന് ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനങ്ങളിൽ ഇവിടെ സെൻസറുകൾ ഉപയോഗിക്കുന്നു എങ്ങനെ എപ്പോൾ നിങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുന്നു നിങ്ങൾ സെൻസറുകൾ ഉപയോഗിച്ച് അത് അളക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അളക്കുന്നു ഇതാണ് അളക്കുന്ന സിസ്റ്റം ഔട്ട്പുട്ട് നേടുകയും പിന്നീട് തിരിച്ചുവന്ന് നിങ്ങൾക്ക് ഒരു നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി പരീക്ഷണം ശരിയാക്കുകയും ചെയ്യാം ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനങ്ങളിൽ സെൻസറുകൾ ഉപയോഗിക്കുന്നു കൂടാതെ പല അളവെടുക്കൽ സംവിധാനങ്ങളും അവരുടെ പ്രവർത്തനത്തിൽ ഫീഡ്ബാക്ക് തത്വങ്ങൾ ഉപയോഗിക്കുന്നു ഫീഡ്ബാക്ക് സിസ്റ്റങ്ങളിൽ സെൻസറുകൾ ഉപയോഗിക്കുന്നു കൂടാതെ ഫീഡ്ബാക്ക് സംവിധാനങ്ങൾ സെൻസറുകളിലും ഉപയോഗിക്കുന്നു അതിനാൽ രണ്ടും ഉപയോഗിക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് കണ്ട്രോൾ സിസ്റ്റത്തിന്റെ ഘടകമായി ഒരു ഉപകരണത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനത്തിലെ ഏതെങ്കിലും വേരിയബിളിനെ നിയന്ത്രിക്കുന്നതിന് ആദ്യം അത് അളക്കേണ്ടത് ആവശ്യമാണ് ഓരോ ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനത്തിലും നിങ്ങൾക്ക് ഒരു അളക്കുന്ന ഉപകരണമെങ്കിലും സുപ്രധാന ഘടകമായി ഉണ്ടായിരിക്കും സിഗ്നൽ നിയന്ത്രണ സംവിധാനത്തിന് നിരവധി അളക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമായി വന്നേക്കാം അതുകൊണ്ട് വ്യാവസായിക യന്ത്രങ്ങളും പ്രക്രിയ നിയന്ത്രണവും സിമൻറ് വ്യവസായം കരിമ്പ് വ്യവസായം പഞ്ചസാര വ്യവസായം വിമാന നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗപ്രദമാണ് വിമാന നിയന്ത്രണ സംവിധാനങ്ങളിൽ ഒരു വിമാനത്തിന് ചുറ്റും നിരവധി സെൻസറുകളുണ്ട് അവ എല്ലാ അവസ്ഥകളും നോക്കുകയും നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് സിസ്റ്റത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഓട്ടോമോട്ടീവ് നിയന്ത്രണ സംവിധാനങ്ങൾ ഇവയെല്ലാം ഇന്ന് ലഭ്യമാണ് അതിനാൽ ഓട്ടോമൊബൈലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിയന്ത്രണ പ്രക്രിയകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് റേഞ്ച് സെൻസർ ചേസിസ് ലെവൽ സെൻസർ മോട്ടോർ പൊസിഷൻ സെൻസർ ഡിഫറൻഷ്യൽ നോൺ കോൺടാക്റ്റ് ആംഗിൾ സെൻസർ സ്റ്റിയറിംഗിനുള്ള കോംബോ സെൻസർ ഇന്ധന പ്രവാഹത്തിനുള്ള ത്രോട്ടിൽ സ്ഥാനം HVAC സെൻസർ സ്റ്റിയറിംഗ് സെൻസർ ഇന്ധന ലെവൽ സെൻസർ വീൽ സ്പീഡ് മോണിറ്ററിംഗ് മിറർ സെൻസറുകൾ ആക്സിലറേഷൻ പെഡൽ ആംഗിൾ സെൻസർ ട്രാൻസ്മിഷൻ സെൻസറുകളും കാണാൻ കഴിയും ഇന്ന് എന്താണ് സംഭവിച്ചത് ഈ സെൻസറുകളെല്ലാം ഒരു ഓട്ടോമൊബൈലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു തുടർന്ന് ഈ സെൻസറുകൾ ആദ്യം ആവശ്യമായ അളവ് അളക്കുന്നു തുടർന്ന് അത് ചെയ്യുന്നത് മികച്ച മൈലേജ് അല്ലെങ്കിൽ സുഖപ്രദമായ സവാരി ലഭിക്കുന്നതിന് ആവശ്യമായ നിശ്ചിത അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇവിടെ ഇത് പ്രക്രിയയുടെയും പ്രവർത്തനത്തിന്റെയും നിയന്ത്രണമാണ് അതിനാൽ പ്രക്രിയകളുടെയും ഓട്ടോമേഷന്റെയും നിയന്ത്രണത്തെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കണമെങ്കിൽ ഒരു സ്കീമാറ്റിക് ഡയഗ്രം നിർമ്മിക്കാൻ എന്നെ അനുവദിക്കുക അതിനാൽ ഇതാണ് റഫറൻസ് സിഗ്നൽ ഇൻപുട്ട് തുടർന്ന് നമ്മൾക്ക് ഒരു നിയന്ത്രണ അൽഗോരിതം ഉണ്ട് അതിനുശേഷം നമ്മൾക്ക് ഒരു ആക്ചുവേറ്റർ ഉണ്ട് തുടർന്ന് നമ്മൾക്ക് ഒരു പ്ലാന്റ് ഉണ്ട് അത് ഔട്ട്പുട്ട് നൽകും ഇതാണ് ഫീഡ്ബാക്ക് സിഗ്നൽ ഇത് ഒരു നിയന്ത്രണ സംവിധാനമാണ് ഇവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട് പ്രക്രിയയുടെ നിയന്ത്രണം നിങ്ങൾ കാണുന്നു ഇങ്ങനെയാണ് ഇത് റഫറൻസ് ഇൻപുട്ട് നൽകിയിരിക്കുന്നു അതിനാൽ ഇവിടെ പിശക് സിഗ്നൽ ജനറേറ്റുചെയ്യുന്നു തുടർന്ന് ഇത് നിയന്ത്രണ അൽഗോരിതത്തിലേക്ക് കൊണ്ടുപോകുന്നു നിയന്ത്രണ അൽഗോരിതം പരിഷ്ക്കരണം നടത്തുന്നു അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസിലാക്കുന്നു തുടർന്ന് അത് പ്രവർത്തിക്കുന്നു എന്താണ് ഒരു ആക്ചുവേറ്റർ ഉൾപ്പെട്ടിരിക്കുന്ന ചില വേരിയബിളുകളെയോ പാരാമീറ്ററുകളെയോ മാറ്റുന്നത്തിനുള്ള സംവിധാനമാണ് ആക്ചുവേറ്റർ അതിനാൽ ഈ ആക്ചുവേറ്ററുകൾ കൺട്രോൾ അൽഗോരിതം തരുന്ന ഔട്ട്പുട്ട് അനുസരിച്ചു ജോലി ചെയ്യുന്നു ഇത് പ്ലാന്റിന് വിവരങ്ങൾ നൽകുകയും പ്ലാന്റ് കൺട്രോൾ അൽഗോരിതം പിശക് സിഗ്നൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു പിന്നീട് ഫലം തരുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഔട്ട്പുട്ട് എടുക്കുകയും അതിനെ ഒരു ഫീഡ്ബാക്ക് സിഗ്നലായി സെൻസറിന് നൽകുകയും തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ ഈ സെൻസറിനോട് ആവശ്യപ്പെടുകയും പിശക് സിഗ്നൽ നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്കത് വ്യത്യസ്തമായി പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിശക് സിഗ്നൽ ഉണ്ട് ഒരു പ്രക്രിയ നടക്കുന്നു തുടർന്ന് ഔട്ട്പുട്ട് എടുക്കുകയും ഈ ഔട്ട്പുട്ട് തിരികെ കൊണ്ടുവരികയും നൽകിയ പിശക് സിഗ്നലുമായി താരതമ്യം ചെയ്യുന്നു അതനുസരിച്ച് പ്രക്രിയ നിരീക്ഷിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് പാരാമീറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെഷീൻ ചെയ്ത ഒരു ഷാഫ്റ്റ് ആകാം ഒരു ബേക്കറി മൈക്രോവേവ് ഓവനിൽ നിന്ന് പുറത്തുവരുന്ന ഒരു റൊട്ടി ആകാം ഓവനിൽ നിന്ന് വരുന്ന പിസ്സ അത് ഫിംഗർ ചിപ്സ് ആകാം അതിനാൽ എല്ലാം പ്രക്രിയകളാണ് പ്രക്രിയ പൂർത്തിയായ ശേഷം ഔട്ട്പുട്ട് വരുന്നു തുടർന്ന് ഔട്ട്പുട്ട് അളക്കുന്നു തിരുത്തലുകൾ ആവശ്യമെങ്കിൽ ഉടനടി അത് ഔട്ട്പുട്ട് അളക്കുകയും താരതമ്യപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് നൽകുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ മൂല്യം പരിശോധിക്കുകയും പിശക് സിഗ്നലിൽ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയ തുടരുന്നു സാധാരണയായി അളക്കുന്ന മൂല്യം പ്രക്രിയ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു പരീക്ഷണാത്മക എഞ്ചിനീയറിംഗ് വിശകലനം എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ രണ്ട് പൊതു രീതികൾ ലഭ്യമാണ് പല പ്രശ്നങ്ങൾക്കും രണ്ട് രീതികളും പ്രയോഗിക്കേണ്ടതുണ്ട് സിദ്ധാന്തം പരീക്ഷണം എന്നിവ പരസ്പര പൂരകമാണെന്ന് കരുതണം എഞ്ചിനീയറിംഗ് വിശകലനത്തിൽ നമ്മൾ സിദ്ധാന്തം ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സിദ്ധാന്തത്തിൽ നമ്മൾ ഗണിതശാസ്ത്രപരമായി പ്രശ്നം പരിഹരിക്കുന്നു അല്ലെങ്കിൽ സിമുലേഷൻ നടത്തുകയും പ്രക്രിയ പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രക്രിയ മനസിലാക്കിയതിനുശേഷം അത് പരീക്ഷണങ്ങളിൽ നടപ്പിലാക്കുകയും റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ ഒരു പരീക്ഷണാത്മക എഞ്ചിനീയറിംഗ് വിശകലനത്തിൽ ഒരു അളക്കൽ സംവിധാനത്തിന്റെ പ്രയോഗം വലിയ തോതിൽ വരുന്നു ഒരു സൈദ്ധാന്തിക രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇത് പലപ്പോഴും നിയന്ത്രിത അപ്ലിക്കേഷനെക്കാൾ പൊതുവായ ഉപയോഗത്തിലുള്ള ഫലങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലേത്ത് മെഷീനിൽ വേഗത ഫീഡ് കട്ടിന്റെ ആഴം എന്നിവ അറിയാം ഫീഡ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് കട്ടിന്റെ ആഴവും കട്ടിംഗ് വേഗതയും തമ്മിലുള്ള ബന്ധവും അറിയാം അതിനാൽ ഒറ്റയായുള്ള പ്രതികരണങ്ങളുടെ വ്യാപ്തി ടൂൾ വർക്ക്പീസ് ഇടപെടലുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ പൊതുവായ ഉപയോഗം സിദ്ധാന്തം നൽകുന്നു പക്ഷേ ഞാൻ പൊതുവായ ഉപയോഗം വച്ച് എന്റെ ആവശ്യകതകളിലേക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ചു മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം അതിനാൽ സൈദ്ധാന്തിക രീതിയുടെ സവിശേഷത ഒരു പൊതുവായ ധാരണയാണ് അതിനാൽ ഉദാഹരണത്തിന് Ra fd ഒരു ലേത്ത് മെഷീനിൽ സൈദ്ധാന്തികരീതിയിൽ സൂത്രവാക്യങ്ങൾ പോലും ഉപയോഗിക്കാൻ കഴിയും ഇതാണ് സ്വാധീനിക്കുന്ന ആദ്യത്തെ പ്രധാന ഭാഗം ഇത് രണ്ടാമത്തേതും ഇത് മൂന്നാമത്തേതുമാണ് അതിനാൽ ഇവിടെ പൊതുവായവ നൽകിയിരിക്കുന്നു എന്നാൽ യുടെ മൂല്യം f ന്റെ മൂല്യം d ന്റെ മൂല്യം എന്താണ് നിങ്ങൾക്ക് ഒരു മികച്ച Ra ലഭിക്കുന്ന തരത്തിലുള്ളവ തിരഞ്ഞെടുക്കണം പക്ഷേ അത് പരീക്ഷണങ്ങളിൽ കൂടി കണ്ടെത്തണം മാറ്റമില്ലാത്തതിന് ലളിതമായ അനുമാനങ്ങളുടെ പ്രയോഗം ആവശ്യമാണ് നിർമ്മാണത്തിൽ മൂന്ന് പാരാമീറ്ററുകൾ മാത്രമേ ആവശ്യമായുള്ളൂ അവ സമ്മർദ്ദം സമയം താപനില എന്നിവയാണ് ആ മൂന്ന് പാരാമീറ്ററുകൾ അതിൽ ഒരെണ്ണം മാത്രം ഉൾപ്പെടുന്ന പ്രക്രിയകളുണ്ട് രണ്ട് പ്രോസസ്സ് വേരിയബിളുകൾ ഉൾപ്പെടുന്ന പ്രക്രിയകളുണ്ട് മൂന്ന് പേരും ഉൾപ്പെടുന്ന പ്രക്രിയകളുണ്ട് ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഉൾപ്പെടുമ്പോൾ വ്യക്തിഗത പാരാമീറ്ററുകളുടെ വെയിറ്റേജ് എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയില്ല കൃത്യമായ വെയിറ്റേജ് നമ്മൾക്ക് അറിയാമെങ്കിൽ നമുക്ക് വേഗത്തിൽ പോയി മാനുഫാക്ചറിംഗ് മോഡലിംഗ് ഏത് പ്രക്രിയയുടെയും പ്രോസസ് മോഡലിംഗ് എന്നിവ ചെയ്യാൻ കഴിയും എന്നാൽ ഇത് വളരെ തന്ത്രപരമായ ഒരു സാഹചര്യമാണ് അതിനാൽ നമ്മൾ പൊതുവെ ചെയ്യുന്നത് ധാരാളം അനുമാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ അനുമാനം മോഡലിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു മോഡലിനെ സാമാന്യവൽക്കരിക്കുന്ന നിമിഷം നമുക്ക് ലഭിക്കുന്നത് ഒരു ജനറിക് ഔട്ട്പുട്ടാണ് സൈദ്ധാന്തികമായി പ്രവചിച്ച സ്വഭാവം എല്ലായ്പ്പോഴും യഥാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങൾ ഒരു മെറ്റീരിയൽ നീക്കംചെയ്യൽ നിരക്ക് M R എടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക ഇത് സൈദ്ധാന്തിക പ്രതികരണമായിരിക്കും പക്ഷേ പരീക്ഷണാത്മക പ്രതികരണം ഇതുപോലെയാകാം സിദ്ധാന്തം ഏതാണ്ട് ഒരു നേർരേഖയായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം നിങ്ങൾ അനുമാനങ്ങൾ സൃഷ്ടിക്കുകയും മോഡൽ അത്തരമൊരു രീതിയിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു അത് നിങ്ങളെ എല്ലായ്പ്പോഴും സൈദ്ധാന്തികരീതിയിലേക്ക് നയിക്കുന്നു അതിനാൽ നമ്മൾ യഥാർത്ഥ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ എല്ലായ്പ്പോഴും ഒരു പിശക് ഉണ്ട് സൈദ്ധാന്തിക പ്രവചന സ്വഭാവം എല്ലായ്പ്പോഴും ഒരു യഥാർത്ഥ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ലളിതവൽക്കരിച്ച ഫിസിക്കൽ മാത്തമാറ്റിക്കൽ മോഡലുകൾ കാരണം ചില ഉൽപാദന പ്രക്രിയയുടെ മാതൃകയും പ്രവർത്തനവും ലളിതമാക്കാൻ നമ്മൾ പലതവണ വേരിയബിൾ ബന്ധത്തെ രേഖീയമായി എടുക്കാൻ ശ്രമിച്ചു യഥാർത്ഥ ഭൌതിക വ്യവസ്ഥ കണക്കാക്കാതെ നമ്മൾ ഇത് പഠിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഇത് സങ്കീർണ്ണമായ ഗണിതശാസ്ത്ര പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു ലേസർ സിമുലേഷൻ ചെയ്യണമെങ്കിൽ അതായത് ലേസർ വെൽഡിംഗ് അല്ലെങ്കിൽ ലേസർ ഹോൾ നിർമ്മാണ പ്രക്രിയയുടെ സിമുലേഷൻ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചൂട് എടുക്കുന്നതിനാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുക്കേണ്ടതിനാൽ കൂടാതെ ഇതിനായി നിങ്ങൾ സമയത്തെ ആശ്രയിക്കുന്ന വേരിയബിൾ എടുക്കേണ്ടതാണ് ഇത് വളരെ സങ്കീർണ്ണമായ പ്രക്രിയയാണ് ചില സന്ദർഭങ്ങളിൽ ഇത് സങ്കീർണ്ണമായ ഗണിതശാസ്ത്ര മോഡലിംഗിലേക്ക് നയിച്ചേക്കാം ചിലപ്പോൾ ഇതിന് പേന പെൻസിൽ കമ്പ്യൂട്ടർ തുടങ്ങിയവ മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ വിപുലമായ സൌകര്യങ്ങൾ സൈദ്ധാന്തികത്തിന് ആവശ്യമില്ല അതിനാൽ ബിൽഡിംഗ് മോഡലിംഗിലും അസംബ്ലിയിലും കാലതാമസമില്ല പരീക്ഷണാത്മക മോഡലിംഗിന്റെ സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു നിർദ്ദിഷ്ട സിസ്റ്റത്തിന് മാത്രം ബാധകമാകുന്ന ഫലങ്ങൾ നൽകുന്നു നിർദ്ദിഷ്ട സിസ്റ്റം പരീക്ഷിക്കുന്നതിനായി മുൻ പ്രഭാഷണത്തിൽ അനുഭവേദ്യ മോഡലിംഗ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഡൈമൻഷണൽ അനാലിസിസ് പോലുള്ള ടെക്നിക്കുകൾ ചില സാമാന്യവൽക്കരണത്തെ അനുവദിച്ചേക്കാം എന്നാൽ ഇവിടെ പരീക്ഷണങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി ഒരു യഥാർത്ഥ ചിത്രം നൽകാൻ കൃത്യമായ അളവുകൾ ആവശ്യമാണ് പരീക്ഷണങ്ങൾ എല്ലായ്പ്പോഴും ചെലവേറിയതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉപകരണത്തിന്റെ സ്വഭാവം സങ്കീർണ്ണവുമാണ് അതുകൊണ്ട് ഉപകരണത്തിന്റെ അന്തിമ പതിപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും ഡീബഗ്ഗ് ചെയ്യുന്നതിനും ഗണ്യമായ സമയം ആവശ്യമാണ് ഇവിടെ ഒരു ഉപകരണം ഉണ്ട് അതിൽ ഒരു ഷാഫ്റ്റ് വയ്ക്കുന്നു ഇത് ഒരു ക്യാം ഷാഫ്റ്റാണ് ഇവ 1 2 3 4 5 6 7 8 ക്യാമുകളാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 8 ക്യാം ഉള്ള ഒരു ക്യാം ഷാഫ്റ്റാണ് ക്യാമുകൾ എല്ലായ്പ്പോഴും ടൈമറിനായി നൽകുന്നു ഇത് സമയബന്ധിതമായി ദ്രാവകം പുറത്തുവിടുന്നതിന് വേണ്ടിയുളള ഒരു ടൈമർ ആയി വർത്തിക്കുന്നു അതിനാൽ ഇവിടെ ഈ ക്യാമുകളെല്ലാം നിങ്ങൾ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഒരു ഷാഫ്റ്റിന്റെ അവിഭാജ്യ ഘടകമാണ് അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്ഥലങ്ങളാണ് എഞ്ചിൻ ആവരണവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ ഇതിന്റെ ഓരോന്നോരോന്നായുള്ള മൂല്യങ്ങൾ അളക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇത് ഒരു സിഎംഎം മെഷീൻ കോ ഓർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇവിടെ ഒരു സ്റ്റൈലസ് ഉണ്ട് സ്റ്റൈലസ് ഇതുമായി സമ്പർക്കം പുലർത്തുന്നതിനാൽ നമ്മൾക്ക് ഏത് പോയിന്റിന്റെ മൂല്യവും ഡിജിറ്റൽ ആയി ലഭിക്കും പൊതുവായ അളവെടുക്കൽ സംവിധാനത്തിന്റെ ഘടകങ്ങൾ നിർദ്ദിഷ്ട ഹാർഡ്വെയറുകളുടെ സഹായമില്ലാതെ ഒരു സാധാരണ രീതിയിൽ അളക്കുന്ന ഉപകരണത്തിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനവും പ്രകടനവും വിവരിക്കുന്നത് അഭികാമ്യമാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഒരു അളവെടുക്കൽ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള ആവശ്യകതകൾ നൽകാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് വളരെ സാധാരണമാക്കാൻ ശ്രമിക്കണം എന്നാണ് അതിനാൽ രണ്ട് പ്രവർത്തനങ്ങളും വിവരിക്കുന്നത് അഭികാമ്യമാണ് അതിനർത്ഥം ദയവായി എനിക്ക് എക്സ് ഉപകരണം നൽകൂ എന്ന് പറയുന്നതിനുപകരം നിങ്ങൾ പറയേണ്ടത് ഇത് ഇവിടെ നിർമ്മിച്ച ഒരു ഭാഗമാണെന്നും ഇത് ഈ രീതികളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുമെന്നും ഈ ഭാഗത്തിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ടു ഇതിനു പ്രാധാന്യമുണ്ടെന്നും ഇതിനായി ഞാൻ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരു ഉപകരണം ആവശ്യമുണ്ട് എന്നുമായിരിക്കണം അതിനാൽ ദയവായി എനിക്ക് അത് തരൂ എന്ന് പറയുന്നതിനുപകരം എന്ത് ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് അടുത്ത വ്യക്തിക്ക് വളരെ വ്യക്തമായി വിവരിച്ചു കൊടുക്കാൻ കഴിയണം അതിനാൽ അളക്കുന്ന ഉപകരണത്തിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും നിർമ്മാണവും പ്രകടനവും ഒരു നിർദ്ദിഷ്ട രീതിക്ക് പകരം സാമാന്യവൽക്കരിച്ച രീതിയിൽ വിവരിക്കുന്നത് അഭികാമ്യമാണ് ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിന്റെ പ്രവർത്തനപരമായ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള അളവുകൾ ചെയ്യേണ്ട ഒരു ഉപകരണമാണ് നമ്മൾക്ക് വേണ്ടത് എന്നാണ് ഇവിടെ പറയേണ്ടത് അല്ലാതെ ആകൃതി വലുപ്പം അത് എങ്ങനെയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത് സിസ്റ്റത്തിൽ എന്തൊക്കെ ഫംഗ്ഷനുകൾ വേണം അത് അളക്കേണ്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയണം ഈ ഫംഗ്ഷനുകളിലും അവ നിറവേറ്റുന്നതിന് ലഭ്യമായ വിവിധ ഫിസിക്കൽ ഉപകരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ പുതിയ ഉപകരണങ്ങളുടെ സംയോജനത്തിനുള്ള നമ്മളുടെ കഴിവ് നമ്മൾ വികസിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡയൽ ഗേജ് ആവശ്യമാണെന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ ഇവിടെ ഒരു ഘടകമുണ്ട് അത് ഇങ്ങനെ ഇരിക്കും ഇതാണ് അളക്കേണ്ടത്എന്ന് നിങ്ങൾക്ക് പറയാം എനിക്ക് ഈ കട്ടുകൾ എല്ലാം അളക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഒരു വെർനിയർ തരൂ എന്ന് ഞാൻ പറയും അതുപോലെ എനിക്ക് ആരം അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണം തരൂ എന്ന് പറയും ഇവിടെ ഞാൻ ചെയ്യുന്നത് വിവിധ ഫംഗ്ഷനുകളായി വിഭജിക്കാൻ ശ്രമിക്കുകയാണ് തുടർന്ന് ഞാൻ ഈ ഫംഗ്ഷനുകൾ സ്വാംശീകരിക്കാനും നമ്മുടെ ആവശ്യത്തിനായി സ്വന്തം ഉപകരണം വികസിപ്പിക്കാനും ശ്രമിക്കുകയാണ് അതിനാൽ സാമാന്യവൽക്കരിച്ച അളവെടുക്കൽ സംവിധാനങ്ങളുടെ ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ അളവുകൾ അളക്കും അതിനുശേഷം നിങ്ങൾക്ക് പ്രൈമറി സെൻസിംഗ് എലമെന്റ് ഉണ്ടാകും തുടർന്ന് വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ഉണ്ടാകും തുടർന്ന് എലമെൻറിലുള്ള വേരിയബിൾ മാനിപുലേഷൻ ചെയ്യും തുടർന്ന് നമ്മൾക്ക് ഡാറ്റാ ട്രാൻസ്മിഷൻ ഉണ്ടാകും തുടർന്ന് വേണ്ടത് ഡാറ്റാ പ്രസന്റേഷൻ സിസ്റ്റം അതിനാൽ സാമാന്യവൽക്കരിച്ച അളവെടുക്കൽ സംവിധാനത്തിൽ നിലവിലുള്ള വ്യത്യസ്ത ഘടകങ്ങളാണിവ ആദ്യം നമുക്ക് അളക്കുന്ന അളവ് ഉണ്ടാകും അളക്കാൻ നമ്മൾക്ക് ഒരു പ്രാഥമിക സെൻസർ ഉണ്ടാകും തുടർന്ന് ഈ പ്രാഥമിക സെൻസർ ഘടകം ഒരു വേരിയബിൾ പരിവർത്തന ഘടകത്തിലേക്ക് അയയ്ക്കും ഇവിടെ നമ്മൾ ചില പ്രാഥമിക ഡാറ്റകളെ ദ്വിതീയ ഡാറ്റകളിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കും തുടർന്ന് നമ്മൾ ചെയ്യുന്നത് എലെമെന്റിന്റെ മാറ്റം വരുത്തിയ ഡാറ്റാ വേരിയബിൾ എടുക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് ഡാറ്റാ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട് ഈ ഡാറ്റാ ട്രാൻസ്മിഷൻ സിസ്റ്റം ഡാറ്റ സംഭരണം ചെയ്യുന്ന സിസ്റ്റവുമായി ആശയവിനിമയം നടത്തുന്നു തുടർന്ന് ഈ സിഗ്നൽ ഡാറ്റാ അവതരണ സിസ്റ്റത്തിലേക്ക് അയയ്ക്കുന്നു ഇത് ഡാറ്റ സംഭരണത്തിലേക്ക് പോകാതെ തന്നെ അവതരണത്തിലേക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഞാൻ ഡാറ്റ അളക്കുകയാണെന്നും തുടർന്ന് ഞാൻ ഡാറ്റ പരിവർത്തനം ചെയ്യാനും ഘടകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു തുടർന്ന് ഞാൻ റെക്കോർഡുചെയ്യുന്നു തുടർന്ന് അന്തിമ ഡാറ്റ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുന്നതിന് ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യുന്നു പ്രാഥമിക ഘടകങ്ങൾ എന്തൊക്കെയാണ് അളന്ന മാധ്യമത്തിൽ നിന്ന് ആദ്യം ഊർജ്ജം സ്വീകരിക്കുന്നതും അളന്ന അളവനുസരിച്ച് ഔട്ട്പുട്ട് നൽകുന്നതുമായ ഘടകങ്ങളാണിവ ഔട്ട്പുട്ട് ചില ഫിസിക്കൽ വേരിയബിളുകളാണ് ഉദാഹരണത്തിന് അത് സ്ഥാനചലനവും വോൾട്ടേജും ആകാം ഒരു ഉപകരണം എല്ലായ്പ്പോഴും അളന്ന മീഡിയയിൽ നിന്ന് കുറച്ച് ഊർജ്ജം എടുക്കുന്നു അളക്കുന്ന അളവുകൾക്ക് എല്ലായ്പ്പോഴും അളവെടുക്കൽ പ്രവർത്തനത്താൽ സ്ഥിരത നഷ്ടപ്പെടാം ഇത് ഒരു തികഞ്ഞ അളവ് സൈദ്ധാന്തികമായി അസാധ്യമാക്കുന്നു ഈ ലോഡിംഗ് പ്രഭാവം കുറയ്ക്കുന്നതിനാണ് നല്ല ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് ഇത് ഒരു പ്രാഥമിക ഉപകരണമാണ് ഇതൊരു പ്രാഥമിക സെൻസിംഗ് ഉപകരണമാണ് ശരി ഇവിടെ ഒരു ഫിറ്റിങ് ഉണ്ട് ഇവിടെ ഒരു കണക്റ്റിംഗ് ഹെഡ് ഉണ്ട് ഇത് ഒരു പരിരക്ഷിക്കുന്ന ട്യൂബാണ് ഇത് ഒരു എൽവിഡിടി ആകാം അല്ലെങ്കിൽ ഇത് ഗ്യാസ് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സെൻസറാകാം അതിനാൽ ഇവിടെ കണക്റ്റിംഗ് ഹെഡ് മുതൽ ഫിറ്റിങ് വരെ ഇത് ഒരു സ്വതന്ത്ര ഭാഗമായിരിക്കും ഇത് ഭാഗം I ഉം ഇത് ഭാഗം II ഉം ആയിരിക്കും ഇവിടെ സംവേദനക്ഷമതയെ ആശ്രയിച്ച് ഈ ഉപകരണങ്ങൾ മാറ്റാനാകും ഉദാഹരണത്തിന് പരിരക്ഷിക്കുന്ന ട്യൂബ് മാറ്റാൻ കഴിയും സെൻസിംഗ് ഘടകം മാറ്റാൻ കഴിയും അങ്ങനെ നമ്മൾക്ക് ഡാറ്റ കൂടുതൽ കൃത്യമായി ലഭിക്കും വേരിയബിൾ പരിവർത്തന ഘടകം ഞാൻ ഒരു വ്യക്തിഗത ബ്ലോക്ക് ഡയഗ്രം എടുത്ത് പ്രാഥമിക വേരിയബിൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു പ്രാഥമിക സെൻസിംഗ് ഘടകങ്ങളുടെ ഔട്ട്പുട്ട് സിഗ്നൽ മറ്റൊരു അനുയോജ്യമായ വേരിയബിളിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതായി വന്നേക്കാം അതിനാൽ സ്ഥാനചലനം എടുക്കുന്നതിനുപകരം ഞാൻ ഇത് ഒരു വോൾട്ടേജ് പാരാമീറ്ററായി പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കും യഥാർത്ഥ രൂപത്തിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇതിന് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് സ്ഥാനചലനം നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു വോൾട്ടേജ് സിഗ്നലായി പരിവർത്തനം ചെയ്യുന്നതിനാൽ മറ്റ് അളവുകൾക്ക് ഈ വോൾട്ടേജ് ഉപയോഗിക്കാൻ കഴിയും വേരിയബിൾ പരിവർത്തന ഘടകം ഇത് പ്രഷർ ഇൻപുട്ടാണെന്നും ഇത് സപ്പോർട്ട് ബേസാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇവിടെ ഒരു കോയിൽഡ് സ്പ്രിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ തള്ളാൻ ശ്രമിക്കുമ്പോൾ ഈ പോയിന്റർ നീങ്ങും അതിനാൽ ഈ സ്ഥാനചലനം ഈ ചലനത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു അതിനാൽ ഡാറ്റ അവതരണ ഘടകം അളന്ന അളവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടർവത്കരിക്കപ്പെടുകയോ എവിടെയെങ്കിലും സൂക്ഷിക്കുകയോ ആണെങ്കിൽ ഇത് നിരീക്ഷണം നിയന്ത്രണം വിശകലന പ്രക്രിയ എന്നിവയ്ക്കായി മനുഷ്യനുമായി ആശയവിനിമയം നടത്തുന്നുവെങ്കിൽ അത് തിരിച്ചറിയുന്ന രൂപത്തിൽ പരിവർത്തനപ്പെടുത്തി ഉൾപ്പെടുത്തണം അപ്പോൾ ഡാറ്റ അവതരണ ഘടകം ഡാറ്റ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും അത് എന്താണെന്ന് മനസിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ഡാറ്റാ പ്രസന്റേഷൻ എലമെന്റ് ഒരു സിആർഒ പോലെയാകാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് പവർ സപ്ലൈ ഉണ്ടായിരുന്നു ഇത് ഒരു മെഷീനിൽ അറ്റാച്ചുചെയ്യുന്നു അതിനാൽ വൈദ്യുതി വിതരണം മെഷീന് കുറച്ച് ഡാറ്റ നൽകി വോൾട്ടേജും കറൻറ് സിഗ്നലുകളും നൽകിയിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ യന്ത്രം വോൾട്ടേജും വൈദ്യുതധാരയും അളക്കാൻ ആരംഭിക്കുന്നു വോൾട്ടേജും കറൻറ് പാരാമീറ്ററും ലോഡ് എത്രയാണുള്ളതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കണ്ടെത്തുന്നു ഈ സിഗ്നൽ ഒരു ഓസിലോസ്കോപ്പ് സിആർഒയുമായി കണക്റ്റുചെയ്യാനും സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഒരു സിആർഒയിൽ സംഭവിക്കുന്ന ഡാറ്റാ അവതരണം കാണാനും ഞാൻ ആഗ്രഹിച്ചു ഇതിനെ ഒരു ടിവി എന്ന് വിളിക്കാം അല്ലെങ്കിൽ സ്ഥാനമാറ്റം കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു CRO ആകാം അതിനാൽ ആദ്യം നമ്മൾ പ്രാഥമിക എലമെന്റ് സിസ്റ്റം കണ്ടു തുടർന്ന് വേരിയബിൾ പരിവർത്തന സംവിധാനം കണ്ടു ഞാൻ ഒരു ഉദാഹരണം നൽകി തുടർന്ന് CRO ൽ ഡാറ്റ അവതരണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ടു അപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് കണ്ടത് നമ്മൾ വിവിധ തരം ഉപകരണങ്ങൾ കണ്ടു തുടർന്ന് അളവുകളിൽ ഉപകരണങ്ങളുടെ പങ്ക് വ്യത്യസ്ത അളവെടുപ്പിന്റെ ആവശ്യകത എന്തൊക്കെയാണ് പൊതുവായ അളവെടുക്കൽ സംവിധാനത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാമാണ് വിദ്യാർത്ഥികൾക്കുള്ള ടാസ്ക് നമുക്ക് രണ്ട് ടാസ്ക്കുകൾ എടുക്കാം ആദ്യത്തെ ടാസ്ക് നമുക്ക് ഒരു സ്പീഡോമീറ്റർ എടുക്കാം വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ഓഡോമീറ്റർ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഒരു പ്രത്യേക ആർപിഎമ്മിൽ കറങ്ങുന്ന ഒരു ചക്രം ഉണ്ടാകും കൂടാതെ ഈ ഡാറ്റ സ്ക്രീനിൽ പരിവർത്തനം ചെയ്യപ്പെടുകയും നിങ്ങൾ കിലോമീറ്റർ കാണുകയും ചെയ്യും തുടർന്ന് ഇത് മൈലേജ് കാണിക്കുന്ന ഉപകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആർപിഎമ്മിന്റെ ഡാറ്റ എങ്ങനെയാണ് ഒടുവിൽ മൈലേജ് ഡാറ്റയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് എന്നതാണ് അതിനാൽ നമ്മൾ ദൂരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അളന്ന ഒരൊറ്റ ഡാറ്റ മറ്റേതെങ്കിലും ഡാറ്റാ ഫോമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു കൂടാതെ മൈലേജ് കണ്ടെത്താൻ ഈ ഡാറ്റ ഉപയോഗിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഇന്ധന ഉപഭോഗത്തിന്റെ ഇൻപുട്ടും ആവശ്യമാണ് അതിനാൽ ഇന്ധനത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു ഉപകരണം ഇവിടെയുണ്ട് അതിനാൽ ഈ ഡാറ്റയും ഇതുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഡാറ്റ ലഭിക്കേണ്ടതുണ്ട് ഇവിടെ ഇത് മനസിലാക്കുക അത് വോളിയത്തിനായി നോക്കുന്നുണ്ടോ ടാങ്കിന്റെ ഉയരം പറയാൻ ദൂരം നോക്കുന്നുണ്ടോ പിന്നെ ഈ ഇന്ധന സൂചകം ഇന്ധനത്തിന്റെ തോത് എങ്ങനെ അളക്കും അതിനാൽ ഇതു മനസിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത അളവുകൾ ലഭിക്കുന്ന വ്യത്യസ്ത ഡാറ്റ പോയിന്റുകൾ കാണാം ഓരോന്നായിട്ടുള്ള ഫിസിക്കൽ പാരാമീറ്ററുകൾ അളക്കുന്നതിന് നിങ്ങൾക്ക് വ്യത്യസ്ത അളവെടുക്കൽ ഉപകരണങ്ങളുണ്ട് ഈ ഉപകരണങ്ങൾക്ക് വ്യത്യസ്ത യൂണിറ്റുകൾ ഉണ്ടാകും അവ പ്രാഥമിക അല്ലെങ്കിൽ ദ്വിതീയ ഡാറ്റ ഇനം എടുക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ഒന്നിലധികം സെൻസറുകളും ലിങ്കുചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അടുത്തതായി നിങ്ങൾ ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ഒരു മെഡിക്കൽ ഉപകരണം ഒരു ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിൽ കാണാൻ കഴിയുന്ന ഒരു ബയോമെഡിക്കൽ ഉപകരണം പ്രദർശിപ്പിക്കുന്ന ഡാറ്റ നിങ്ങൾ കാണുന്നു ഇത് താപനില ഡാറ്റ ആകാം ഇത് ഓക്സിജൻ ഡാറ്റ ആകാം ഇത് നിങ്ങളുടെ ഇസിജി ഡാറ്റയാകാം ഇതെല്ലാം എങ്ങനെ കിട്ടുന്നു ഈ സെൻസറുകളെല്ലാം മുൻകൂട്ടി പ്രോസസ്സ് ചെയ്തതിനുശേഷം നിങ്ങൾക്ക് ഡാറ്റ പ്രദർശിപ്പിക്കും കൂടാതെ ഓരോ രോഗിയുടെയും ഈ ഡാറ്റ നിങ്ങൾക്ക് വായിക്കാനും റെക്കോർഡുചെയ്യാനും രോഗിയുടെ ചരിത്രം മനസിലാക്കാനും കഴിയും ഈ യഥാർത്ഥ ആപ്ലിക്കേഷൻ നോക്കൂ ഇവിടെ നിങ്ങൾ രോഗിയെ ഒന്നിലധികം സെൻസറുകളിലൂടെ നിരീക്ഷിക്കുകയും ഈ സെൻസറുകൾ ഡാറ്റ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈ ഡാറ്റ റെക്കോർഡുചെയ്യുകയും ആവശ്യമുള്ളപ്പോൾ വീണ്ടെടുക്കുകയും ചെയ്യും അളവുകൾ എത്രമാത്രം പ്രധാനമാണ് പ്രോസസ്സിംഗിനായി മറ്റൊരു ഡാറ്റ ലഭിക്കുന്നതിന് വ്യത്യസ്ത അളവെടുക്കൽ സെൻസറുകൾ എങ്ങനെ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ഇവിടെ നൽകിയ ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതോടെ നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എല്ലാവര്ക്കും നന്ദി